ബയോറിയാക്ടറുകളെ കുറിച്ചുള്ള എൻ ടി എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സായ പ്രഭാഷണം 13 ലേക്ക് സ്വാഗതം നമ്മൾ മോഡ്യൂൾ 3 ന്റെ അവസാനമാണ് അവസാന ക്ലാസ്സിൽ ഒരു പ്രശ്നം നിയോഗിച്ചിരുന്നു നമ്മൾ അത് ചെയ്യും അപ്പോൾ മൊഡ്യൂൾ 3പൂർത്തിയാക്കാൻ കഴിയും പ്രശ്നം ഇങ്ങനെ വായിക്കാം

മുകളിൽ പറഞ്ഞ ഉദ്ദേശ്യത്തിനായി ഒരു മണിക്കൂറിൽ 500 ഗ്രാം എന്ന നിരക്കിൽ അനുയോജ്യമായ ഒരു ഫംഗസിനെ ഉത്പാദിപ്പിക്കേണ്ടതുണ്ട് അതായത് ഉൽപ്പാദന നിരക്ക് ഫംഗസ് ഉത്പാദിപ്പിക്കാൻ കീമോസ്റ്റാറ്റിൻറെ ഇൻലെറ്റിൽ സബ്സ്ട്രേറ്റ് ഗാഢത പരിമിതപ്പെടുത്തുന്ന വളർച്ച ഒരു ലിറ്ററിന് 50 ഗ്രാം ആണ് ഫംഗസുകൾ മോണോഡ് കൈനറ്റിക്സിൽ ആണ് പരമാവധി വളർച്ചാ നിരക്ക് മണിക്കൂറിൽ 0 5 ആണ് സബ്സ്റ്റ്രെടിന്റെ പകുതി പരമാവധി വളർച്ചാ നിരക്കായ ഗാഢത ഒരു ലിറ്ററിൽ 1 ഗ്രാം ആണ് സബ്സ്ട്രടിന്റെ 0 5 സെൽ യീൽഡ് കോയിഫിഷ്യൻറ് ഉള്ള ഇത് എയ്റോബിക് വളർച്ചയിലാണ് അതായത് Y xS 0 5 ആണ് മുകളിൽ പറഞ്ഞ ഇൻലെറ്റ് ഫ്ലോ നിരക്കിൽ ആവശ്യമായ ഒരു കീമോസ്റ്റാറ്റിന്റെ ഏറ്റവും ചെറിയ വലിപ്പം കണ്ടെത്തുക പരിഹാരം താഴെ പറയുന്നവയാണ് നമ്മൾ ഉത്തരം കിട്ടാൻ ശ്രമിക്കുകയാണ് എന്താണ് ആവശ്യം ഒരു നിശ്ചിത ഇൻലെറ്റ് വോളിയമെട്രിക്ക് ഫ്ലോ നിരക്കിൽ മുകളിൽ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ ഒരു കീമോസ്റ്റ്ടത്തിന്റെ ചുരുങ്ങിയ വലിപ്പം എന്തൊകെയാണ് അറിയുന്നത് അല്ലെങ്കിൽ നൽകിയിരിക്കുന്നത് 500 g h ഉത്പാദന നിരക്ക് 0 5 h 1 പരമാവധി നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് Ks 1 gl Y xS 0 5 Si 50 gl ഇൻലെറ്റ് സബ്സ്റ്റെറേറ്റ് കോൺസൻട്രേഷൻ വളർച്ചയ്ക്കായുള്ള മോണോഡ് കൈനറ്റിക് നൽകിയിരിക്കുന്നു ഇപ്പോൾനമ്മൾക്ക് ആവശ്യമുള്ളതിനെ എങ്ങനെ ബന്ധിപ്പിക്കാം വ്യാപ്തം കുറയ്ക്കണമെങ്കിൽ പരമാവധി ഉൽപ്പാദനക്ഷമതയായ Rmൽ പ്രവർത്തിക്കേണ്ടതുണ്ട് ഇൻലെറ്റ് ഫ്ലോ നിരക്ക് F സ്ഥിരമാണ്

ഇവിടെ Xm എന്നത് പരമാവധി ഉൽപാദനക്ഷമത ഉണ്ടാകുമ്പോഴുള്ള ഔട്ട്ലെറ്റ് കോശ ഗാഢത യീൽഡ് കോയെഫീസിയൻറും നമുക്കറിയാം കോശ ഗാഢത x എന്നത് അത്കൊണ്ട് പരമാവധി കോശ ഗാഢത Xm ന് ആനുപാതികമായ ഔട്ട്ലെറ്റിലെ സബ്സ്റ്റ്റേറ്റ് ഗാഢത ആണ് Sm Sm കണ്ടെത്തുന്നത് എങ്ങനെ നമുക്കറിയാം അതായത് പകരം വില കൊടുക്കുക ഇനി Xm കണക്കാക്കുക ആയത്കൊണ്ട് അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം ഇതാണ് മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങളിൽ ഒരു കീമോസ്റ്റാറ്റിൻറെ ഏറ്റവും കുറഞ്ഞ വ്യാപ്തം